ഇലക്ട്രിക്ക് ഫീൽഡിന്റെ കേൾ I കഴിഞ്ഞ ലെക്ച്ചറിൽ നാം ഒരു വൈദ്യുത ഫീൽഡിന്റെ ഡൈവേർജെൻസ് എന്നത് റോ ആർ ഭാഗം എപ്സിലോൺ 0 എന്ന് കണ്ടുപിടിച്ചത് ഓർമ്മിക്കുക ഞാൻ ഈ ഗണിത അഭ്യാസം തുടങ്ങിയപ്പോൾ ഞാൻ ഹെംഹോൾട്സ് തിയറത്തെപ്പറ്റി അത് തെളിയിക്കാതെ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ബൌണ്ടറിയിലെ വെക്ടർ ഫീൽഡ് അല്ലെങ്കിൽ അതിന്റെ പെർപെൻഡിക്യൂലർ ഘടകം അറിയാമെങ്കിൽ എനിക്ക് ഈ ഫീൽഡിന്റെ ഡൈവേർജൻസും കേളും അറിയാമെങ്കിൽ എനിക്ക് പുറത്തെ മുഴുവൻ വോളിയത്തിലെയും ഫീൽഡ് കണക്കാക്കാം അപ്പോൾ നാം ഇത് ഇങ്ങനെ നിർവചിച്ചു നമുക്കിപ്പോൾ കേളിന്റെ അർഥം എന്താണെന്ന് മനസിലാക്കാം ഞാൻ കേൾ പരിചയപ്പെടുത്തിയപ്പോൾ എഴുതിയത് ഇത് E യു മായി വിശേഷാൽ ബന്ധപ്പെട്ടതാണ് കേൾ ന്റെ x ഘടകം എന്നത് പാർഷ്യൽ Ez ഭാഗം പാർഷ്യൽ y മൈനസ് പാർഷ്യൽ Ey ഭാഗം പാർഷ്യൽ z y ഘടകം എന്നത് പാർഷ്യൽ Ex ഭാഗം പാർഷ്യൽ z മൈനസ് പാർഷ്യൽ Ez ഭാഗം പാർഷ്യൽ x z ഘടകം എന്നത് പാർഷ്യൽ Ey ഭാഗം പാർഷ്യൽ x മൈനസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ y ഈ അളവ് എങ്ങിനെയാണ് വരുന്നത് കൂടാതെ ഇതിന്റെ അർഥം എന്താണ് ഈ ലെക്ച്ചറിൽ ഇതാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കേൾ നെ ക്കുറിച്ച് ഒരു ആശയം കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഡൈവർജൻസിനെക്കുറിച്ചും ഡൈവേർജിങ്ങിനെക്കുറിച്ചും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നാം ചർച്ച ചെയ്തത് പോലെ ഫ്ലക്സ് ഉള്ളിലേക്ക് വരികയും പുറത്തേക്കു പോകുകയും ചെയ്യുന്നതിന്റെ അർത്ഥം മനസിലാക്കാം ദൈനംദിന ഭാഷയിൽ കേൾ എന്നത് കൊണ്ട് നാം മനസ്സിലാക്കുന്നത് ചുരുണ്ട എന്തോ ഒന്ന് എന്നാണ് ചുരുണ്ട മുടിയുള്ള ആളുകൾ സിങ്കിൽ കൂടി വെള്ളം ഒഴുകിപ്പോകുന്ന രീതി തുടങ്ങിയവ അപ്പോൾ വെലോസിറ്റി ഫീൽഡ് കേൾ ആകുന്നു നാം അതിന് ഉചിതമായ ഗണിത ശാസ്ത്ര പരമായ നിർവചനം നൽകുമ്പോൾ ചുരുണ്ടു പോകുന്ന ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെന്നു വിചാരിക്കുക നമുക്കീ വെക്ടർ ഫീൽഡിനുള്ളിലെ ഒരു പ്രത്യേക രേഖ എടുത്ത് താഴെപ്പറയുന്ന ഇന്റഗ്രൽ കണക്കാക്കാം ഞാൻ ഈ രേഖയിൽ കൂടി സഞ്ചരിച്ച് ചെറിയ ഭാഗങ്ങൾ എടുക്കുന്നു i ഭാഗത്തിലെ E കണക്കാക്കുന്നു അതിനെ dl കൊണ്ട് ഗുണിച്ച് തമ്മിൽ കൂട്ടി ഈ വഴി തുടങ്ങിയേടത്ത് അവസാനിപ്പിക്കുന്നു അപ്പോൾ അവിടെ ഫീൽഡുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഞാൻ ഈ വഴി അവസാനിപ്പിക്കും ഇത് എന്തായിത്തീരും എന്ന നമുക്ക് നോക്കാം എളുപ്പത്തിനു വേണ്ടി ഞാൻ വീണ്ടും ഒരു ചതുരാകൃതിയിലുള്ള പാത്ത് എടുക്കുവാൻ പോകുന്നു xy തലത്തിലാണെന്ന് പറയാം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് മനസിലാക്കുക ഞാൻ ഓരോ പോയിന്റിലേയും E എടുക്കുന്നു ഈ മാർഗത്തിൽകൂടിയുള്ള ഘടകം എടുത്ത് ചെറിയ ഡെൽറ്റഎൽ കൊണ്ട് ഗണിക്കുന്നു അങ്ങനെ ഈ പാ ത്തിലൊട്ടാകെയുള്ളത് എല്ലാം കൂട്ടുന്നു അത് E ഡോട്ട് dl എന്ന ഒരു ക്ലോസ്ഡ് പാത്തിലെ ലൈൻ ഇന്റഗ്രൽ എന്ന് നാം വിളിക്കുന്നത് ആയി എഴുതാം ഇത് സ്വതവേ dl ൽ കൂടിയുള്ള E യുടെ ഘടകം എനിക്ക് നൽകുന്നു അപ്പോൾ x y തലത്തിലെ ഒരു ചെറിയ മാർഗ്ഗത്തിനു വേണ്ടി നമുക്കിത് ചെയ്യാം നമുക്കീ ഏറ്റവും താഴെയുള്ള മൂല എക്സ്y എന്നെടുക്കാം ഇത് x പ്ലസ് ഡെൽറ്റ x y ഇത് x പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ വൈ ഇത് എക്സ്y പ്ലസ് ഡെൽറ്റ y കൂടാതെ സാധാരണയായി നാം ഈ പാത്ത് വഴി സഞ്ചരിക്കുമ്പോൾ അത് കൌണ്ടർ ക്ലോക്ക്വൈസ് ദിശയിലാണെങ്കിൽ പോസിറ്റീവ് ആയി എടുക്കുന്നു ഞാൻ അതുപോലെയാണ് ഇതെടുക്കുന്നത് ഇത് xy x പ്ലസ് ഡെൽറ്റ xy x പ്ലസ് ഡെൽറ്റ എക്സ്y പ്ലസ് ഡെൽറ്റ വൈ എക്സ്y പ്ലസ് ഡെൽറ്റ y ആണ് നമുക്കിപ്പോൾ ഈ മാർഗ്ഗത്തിൽ ഒട്ടാകെയുള്ള ഇന്റഗ്രൽ കണക്കാക്കുക അപ്പോൾ ഇതാണ് വലിയ രീതിയിൽ ഉണ്ടാക്കിയ എന്റെ മാർഗ്ഗം ഞാൻ വീണ്ടും ഈ പോയിന്റുകൾ എഴുതാം xy x പ്ലസ് ഡെൽറ്റ xy x പ്ലസ് ഡെൽറ്റ എക്സ്y പ്ലസ് ഡെൽറ്റ വൈ എക്സ്y പ്ലസ് ഡെൽറ്റ y കൂടാതെ നമുക്ക് കൌണ്ടർ ക്ലോക്ക്വൈസ് ദിശയിൽ സഞ്ചരിച്ച് കണക്കാക്കാം E i ഡെൽറ്റ എൽ i എന്ന തുക ഇതാണ് എന്റെ പാത്ത് 1 2 3 4 1 നു മുകളിൽ E i ഡെൽറ്റ എൽ എന്നത് E x ആകുന്നു നമുക്ക് മുൻപിലത്തെ പോയിന്റ് എടുക്കാം ഇവിടെ E x E x y ഡെൽറ്റ x ആണ് 2 നു മുകളിൽ ഇത് E x x പ്ലസ് ഡെൽറ്റ x y ഡെൽറ്റ y ഇത് E x അല്ല എന്തെന്നാൽ ഇപ്പോൾ ഞാൻ y ദിശയിലാണ് പോകുന്നത് അതിനാൽ ഇത് E y ആകണം x ലെ E y y ഡെൽറ്റ y പ്ലസ് ഞാൻ ഡെൽറ്റ x ഡെൽറ്റ y നീങ്ങുമ്പോൾ x നെ അടിസ്ഥാനമാക്കി y യിലെ വ്യത്യാസം അപ്പോൾ ഞാൻ ഈ രണ്ടു പാത്ത് കളിൽ കണക്കാക്കി ഇനി നമുക്ക് മൂന്നാമത്തെ പാത്തിലേക്ക് പോകാം ഞാൻ ഇത് വീണ്ടും x വൈ x പ്ലസ് ഡെൽറ്റ x വൈ x പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ y x y പ്ലസ് ഡെൽറ്റ വൈ ഇപ്പോൾ ഞാൻ ഈ പാത്ത് 3 ൽ കണക്കാക്കാൻ പോകുന്നു ശ്രദ്ധിക്കുക പാത്ത് 1 ന് നമുക്ക് x y യിലെ E x ഡെൽറ്റ x ഞാനിത് പാത്ത് 3 ന് കണക്കാക്കുമ്പോൾ x ന്റെ ഓരോ വിലയ്ക്കും x വില സമമായിരിക്കും y വില ഡെൽറ്റ y വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ ഞാൻ പാത്ത് 3 ൽ കണക്കാക്കുമ്പോൾ E x E x x y പ്ലസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ വൈഡെൽറ്റ y ആയിരിക്കും ഓരോ x നും y ഓരോ ബിന്ദുവിലും വ്യത്യസ്തമായിരിക്കും കൂടാതെ നാം ഇവിടത്തെ x വില എടുക്കുന്നു അത് തന്നെ ഇതിനും അപ്പോൾ 3 ൽ ഉള്ള E ഡോട്ട് dl ശ്രദ്ധിക്കുക ഇവിടെ dl നെഗറ്റീവ് x ദിശയിലാണ് അതിനാൽ ഇത് മൈനസ് E x ഡെൽറ്റ x അതായത് മൈനസ് E x x y ഡെൽറ്റ x മൈനസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ y ഡെൽറ്റ y ഡെൽറ്റ x ആകുന്നു അത് പോലെ പാത്ത് 4 ൽ ഈ മാർഗ്ഗത്തിൽ ഇത് x y പ്ലസ് ഡെൽറ്റ വൈ x y ൽ എല്ലാം അവസാനിക്കും അതിനാൽ എനിക്ക് E y x y ഡെൽറ്റ y നെഗറ്റീവ് ദിശയിൽ അതിനാൽ മൈനസ് എന്തെന്നാൽ ഇപ്പോൾ നീക്കം നെഗറ്റീവ് y ദിശയിലാണ് കിട്ടുവാൻ പോകുന്നു അപ്പോൾ ഇവിടെയുള്ള ഓരോ ബിന്ദുവിനും ഒരേ ഒരു വ്യത്യാസം x ഡെൽറ്റ x ആയി ചുരുങ്ങുന്നു അതിനാൽ ഇത് എക്സ്y യിൽ ആണ് അതായത് പാത്ത് 4 ൽ ഞാൻ 1 2 3 4 ഇതെല്ലാം കൂട്ടുകയാണെങ്കിൽ ഒരു നിമിഷത്തിൽ ഞാൻ കാണിക്കാം ഇത് പാത്ത് ഒന്നിൽ എന്ന പോലെ കാണപ്പെടും ഇത് പാത്ത് 3 ആയിരുന്നു അത് ഇങ്ങനെ ആയി പാത്ത് രണ്ടും നാലും ഞാൻ ചെയ്തു അതിനാൽ 1234 നമുക്ക് പാത്ത് 2 ൽ കൂടി കണക്കാക്കാം ഞാൻ 2 ൽ കൂടി കണക്കാക്കി അപ്പോൾ പാത്ത് രണ്ടും ഒന്നും മൂന്നും നാലും അവയെല്ലാം തമ്മിൽ കൂടുമ്പോൾ പാത്ത് രണ്ട് E y x y ഡെൽറ്റ y പ്ലസ് പാർഷ്യൽ E y പാർഷ്യൽ x ഡെൽറ്റ x ഡെൽറ്റ വൈ എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ മുഴുവൻ പാത്തിൽ കൂടിയുള്ള ഇന്റഗ്രൽ E ഡോട്ട് dl ഇത് പാർഷ്യൽ E y ഭാഗം പാർഷ്യൽ x ഡെൽറ്റ x ഡെൽറ്റ y മൈനസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ y ഡെൽറ്റ x ഡെൽറ്റ y ആണ് നിങ്ങൾക്ക് മുൻപുള്ള സ്ലൈഡുകളിലേക്ക് പോയി നോക്കാം അപ്പോൾ കാണുന്നത് മറ്റെല്ലാ ടേമുകളും ക്യാൻസൽ ചെയ്യപ്പെടും ബാക്കി ഞാൻ എഴുന്നത് പാർഷ്യൽ E y ഭാഗം പാർഷ്യൽ x മൈനസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ y ഡെൽറ്റ x ഡെൽറ്റ y ആണ് എന്താണ് ഡെൽറ്റ x ഡെൽറ്റ y ഡെൽറ്റ x ഡെൽറ്റ y എന്നാൽ ചെറിയ ചതുരത്തിന്റെ ഏരിയ മാത്രമാണ് അപ്പോൾ ഈ ചതുരത്തിലുള്ള E ഡോട്ട് dl ന്റെ സമ്മേഷൻ പാർഷ്യൽ E y ഭാഗം പാർഷ്യൽ x മൈനസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ y ഞാൻ വ്യക്തമായി എഴുതാം x ഗുണം ഈ ചെറിയ ഏരിയ റൈറ്റ് ഹാൻഡ് കൺവെൻഷൻ അനുസരിച്ച് മാർഗ്ഗത്തിനു ചുറ്റും വിരലുകൾ ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ തള്ളവിരൽ അറയുടെ ദിശയിൽ ചൂണ്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് x y തലം ഓർമ്മിക്കുക x ഉം യു ഉം തള്ളവിരൽ ആ കൺവെൻഷൻ അനുസ്സരിച്ച് z ദിശയിലേക്ക് ചൂണ്ടുന്നു അതിനാൽ എനിക്കീ ഏരിയ എഴുതാം ഇത് ഒരു വെക്ടർ ആയി എഴുതിയാൽ അത് ഡെൽറ്റ a z വെക്ടർ ആണ് നിങ്ങൾക്ക് ഒരു വെക്ടർ നോട്ടെഷൻ അപരിചിതമല്ല അതിനാൽ നാം ഡൈവേർജെൻസ് കണക്കാക്കിയപ്പോൾ നാം ഏരിയയുടെ ദിശ വോളിയമിനു വെളിയിലേക്കാണ് എടുത്തത് ഞാൻ ഈ കൺവെൻഷൻ ഉപയോഗിക്കുവാൻ പോകുന്നു ഞാൻ ഒരു മാർഗ്ഗത്തിലാണെങ്കിൽ ഞാൻ എന്റെ വിരലുകൾ മാർഗ്ഗത്തിനു ചുറ്റും ചുരുട്ടിപിടിക്കുകയാണെങ്കിൽ തള്ള വിരലിന്റെ ദിശ ഏരിയ യുടെ ദിശ നൽകുന്നു അതിനാൽ എനിക്ക് ഇതിനെ ഡെൽറ്റ a z എന്ന് എഴുതാം ഇതിനെ ഞാൻ E z ഘടകത്തിന്റെ കേൾ z ഡോട്ട് z എന്ന് നിർവചിക്കുന്നു അപ്പോൾ E z ഘടകത്തിന്റെ കേൾ എന്നത് E y ഭാഗം പാർഷ്യൽ x മൈനസ് പാർഷ്യൽ E x ഭാഗം പാർഷ്യൽ y ആണ് ഇത് പോലെ നിങ്ങൾക്ക് മറ്റു ഘടകങ്ങളും കണക്കാക്കാം അത് നിങ്ങളുടെ ഒരു എക്സർസൈസ് ആയി ഞാൻ വിടുന്നു അപ്പോൾ കേൾ ന്റെ നിർവചനം E യുടെ കേൾ എന്നത് സിംബോളിക് ആയി x പാർഷ്യൽ x പ്ലസ് y പാർഷ്യൽ y പ്ലസ് z പാർഷ്യൽ z ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയതാണ് E x x പ്ലസ് E y y പ്ലസ് E z z യുമായി ക്രോസ്സ് ഗുണിതം എടുത്താൽ ഞാൻ ആദ്യം യൂണിറ്റ് വെക്റ്ററുകളുടെ ക്രോസ്സ് ഗുണിതം എടുക്കുന്നു അതിനു ശേഷം ഡിഫറെൻഷ്യൽ ഓപ്പറേഷൻ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കേൾ കിട്ടും